കഴിഞ്ഞ ക്ലാസ്സിൽ അക്ഷീയ ആക്സിയൽ ടോർഷൻ പിരിക്കൽ ഊർജ്ജം ബെൻഡിങ് ലോഡുകൾക്ക് ഒടിയൽ ഭാരം വിധേയമായി മെലിഞ്ഞ അംഗങ്ങളിൽ സംഭരിച്ചിരിക്കുന്ന സ്ട്രെയിൻ എനർജിയുടെ ആയാസ ഊർജ്ജം സമവാക്യങ്ങൾ നമ്മൾ വികസിപ്പിച്ചെടുത്തിരുന്നു സ്ട്രങ്ത് ഓഫ് മെറ്റീരിയൽ കോഴ്സിൽ നിങ്ങൾ ഇതിനകം പദപ്രയോഗങ്ങൾ പഠിച്ചു എന്നിരുന്നാലും ആ പദപ്രയോഗങ്ങളുടെ സ്വഭാവം എന്താണെന്ന് നമ്മൾ പരിശോധിച്ചു വാസ്തവത്തിൽ ഊർജ്ജ പ്രകാശന നിരക്ക് സംബന്ധിച്ച അധ്യായത്തിന്റെ അവസാനത്തിൽ ഊർജ്ജ പ്രകാശന നിരക്ക് കണ്ടെത്താൻ നമ്മൾ അവ ഉപയോഗിക്കും നമ്മൾ ലളിതമായ പ്രശ്നങ്ങൾ ഏറ്റെടുക്കും അവിടെ ദൈർഘ്യമേറിയ വിള്ളൽ മതിയാകും അതിനാൽ വസ്തുവിന്റെ ഭാഗങ്ങൾ മെലിഞ്ഞ അംഗങ്ങളുടെ സംയോജനമായി കണക്കാക്കാം വിള്ളൽ ഘടകങ്ങളെ നേർത്ത അംഗങ്ങളായി വേർതിരിക്കും ബാഹ്യ ലോഡിംഗ് കാരണം സംഭരിച്ചിരിക്കുന്ന ഊർജ്ജത്തിനായി നമ്മൾ എക്സ്പ്രഷൻ ഉപയോഗിക്കുകയും ഫ്രാക്ചർ മെക്കാനിക്സ് കാഴ്ചപ്പാടിൽ ഊർജ്ജ പ്രകാശന നിരക്ക് വിലയിരുത്തുകയും ചെയ്യും ക്രാക്ക് മുന്നേറുമ്പോൾ ഘടകത്തിലെ മാറ്റങ്ങൾ എന്താണെന്നു നമ്മൾ ഒരു ചോദ്യം ചോദിച്ചു നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വ്യക്തമായ മാറ്റം ഘടകത്തിന്റെ കാഠിന്യം കുറയുന്നു ഘടകത്തിലെ ബുദ്ധിമുട്ട് കുറയുന്നു അല്ലെങ്കിൽ വർദ്ധിക്കുന്നുവെന്ന് കാണാൻ നമ്മൾ മുന്നോട്ട് പോയി ഇരട്ട കാന്റിലിവർ മാതൃകയുടെ പ്രശ്നവും ഇതും നമുക്ക് ഉണ്ടായിരുന്നു നിരന്തരമായ ലോഡിന്റെയും നിരന്തരമായ സ്ഥാനചലനത്തിന്റെയും രണ്ട് അങ്ങേയറ്റത്തെ അവസ്ഥകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു നമ്മൾ അവ വീണ്ടും നോക്കും നമുക്ക് ഓർമ്മിക്കേണ്ട മറ്റൊരു പ്രശ്നം നിങ്ങൾക്ക് പൊതുവായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ബാഹ്യ ലോഡുകൾ പ്രയോഗിക്കുന്ന ഘടകത്തിന്റെ പോയിൻറുകൾ നീങ്ങുകയോ അല്ലെങ്കിൽ നീങ്ങുകയോ ചെയ്യരുത് അതിനാൽ ഒരു കേസിൽ പോയിന്റുകൾ നീങ്ങുന്ന സ്ഥിരമായ ലോഡിലേക്ക് നമ്മൾ നോക്കി സ്ഥിരമായ പിടിയിലും നമ്മൾ നോക്കി പോയിന്റുകൾ നീങ്ങില്ല പോയിന്റുകൾ നീങ്ങുന്നുവെങ്കിൽ അത് ഘടകത്തിൽ വർത്തിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം രണ്ട് പുതിയ ഉപരിതലങ്ങൾ സൃഷ്ടിക്കാൻ ഊർജ്ജം ഉപയോഗിക്കുന്നു എന്നതാണ് ഫ്രാക്ചർ മെക്കാനിക്സിനോടുള്ള ഗ്രിഫിത്തിന്റെ സമീപനത്തിലെ പ്രധാന പ്രസ്താവനയാണിത് രണ്ട് പുതിയ പ്രതലങ്ങളുടെ രൂപീകരണത്തിന് ഊർജ്ജം ആവശ്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മെറ്റീരിയലിൽ അന്തർലീനമായ പ്രതിരോധം നിലനിൽക്കുന്നു ഒപ്പം വിള്ളലിന്റെ രൂപവത്കരണത്തിന് രണ്ട് പുതിയ ഉപരിതലങ്ങൾ ആവശ്യമാണ് അവ ഊർജ്ജം ഉപയോഗിക്കുന്നു ഈ ഊർജ്ജം ഏതെങ്കിലും ഉറവിടത്തിൽ നിന്ന് വരണം വിശകലനത്തിന്റെ ആവശ്യകതയ്ക്കായി നമ്മൾ അങ്ങേയറ്റത്തെ രണ്ട് അവസ്ഥകൾ പരിശോധിച്ചു ഒന്ന് സ്ഥിരമായ ലോഡ് നമ്മൾ ആനിമേഷൻ നോക്കും അവസാന ക്ലാസ്സിൽ നമ്മൾ അത് വിശദമായി കണ്ടു അത് നിരീക്ഷിക്കുക വിള്ളൽ നീളമുള്ളതിനാൽ കാഠിന്യം കുറയുന്നു ഒപ്പം ലോഡ് ക്രാക്കിന്റെ മൂല്യത്തിൽ എത്തുമ്പോൾ നിങ്ങൾ P1 കണ്ടെത്തും സ്ട്രെയിൻ എനർജിയുടെ മാറ്റം എന്താണെന്ന് നമ്മൾ കണക്കാക്കുന്നു സമ്മർദ്ദ ഊർജ്ജത്തിലെ മാറ്റം ഈ ത്രികോണമല്ലാതെ മറ്റൊന്നുമല്ല ഇവിടെ വിള്ളൽ മുന്നേറുമ്പോൾ സമ്മർദ്ദം വർദ്ധിക്കുന്നു ലോഡ് പരിമിതമായ dV ദൂരം നീക്കി എന്താണ് ബാഹ്യ ജോലി അതാണ് നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്ന ചതുരാകൃതിയിലുള്ള പ്രദേശം ത്രികോണാകൃതിയിലുള്ള വിള്ളൽ വളർച്ചയ്ക്ക് ലഭ്യമായ ഊർജ്ജം എന്താണ് ലളിതമായ ഗണിതശാസ്ത്രമാണ് നിങ്ങളോട് പറയുന്നത് രണ്ട് പുതിയ വിള്ളൽ പ്രതലങ്ങളുടെ രൂപീകരണത്തിന് ലഭ്യമായ ഊർജ്ജത്തിന്റെ ഇരട്ടിയാണ് ഈ സാഹചര്യത്തിൽ ബാഹ്യ ജോലികൾ ചെയ്യുന്നതിനാൽ സമ്മർദ്ദ ഊർജ്ജം വർദ്ധിക്കുന്നു നിരന്തരമായ സ്ഥാനചലനത്തിന്റെ മറ്റ് കേസുകളും നമ്മൾ പരിശോധിച്ചിട്ടുണ്ട് വിള്ളൽ നീളം കൂടിയാൽ ഘടകത്തിന്റെ കാഠിന്യം കുറയുന്നു അതിനാൽ 'a' എന്ന ക്രാക്ക് ദൈർഘ്യത്തിന് 'പ്ലസ് ഡെൽറ്റ a' എന്നതിന് സമാനമായ വരിയുണ്ട് ആനിമേഷൻ കാണുക നിരന്തരമായ സ്ഥാനചലനത്തിന് കീഴിൽ വിള്ളൽ മുന്നേറുന്നതിനനുസരിച്ച് പോയിന്റുകൾ അനങ്ങാത്തതിനാൽ ബാഹ്യ ലോഡ് ചെയ്ത ജോലി '0' ആണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു എന്താണ് ഊർജ്ജ മാറ്റം ഇതാണ് അവസാന സ്ട്രെയിൻ എനർജി ഇതാണ് പ്രാരംഭ സ്ട്രെയിൻ എനർജി അതിനാൽ മാറ്റം നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്നു ഈ സാഹചര്യത്തിൽ സമ്മർദ്ദ ഊർജ്ജം കുറയുന്നു അതിനാൽ നിങ്ങൾ ഇത് മനസ്സിൽ സൂക്ഷിക്കണം ഗണിതശാസ്ത്രം വികസിപ്പിക്കുന്ന ഘട്ടത്തിൽ നിന്ന് നിരന്തരമായ ലോഡ് അല്ലെങ്കിൽ നിരന്തരമായ സ്ഥാനചലനം ഉപയോഗിക്കുന്നത് സൌകര്യപ്രദമാണെന്നും ഒരു പരീക്ഷണത്തിൽ നിന്നുള്ള ഫലങ്ങൾ വ്യാഖ്യാനിക്കാൻ സൌകര്യപ്രദമാണെന്നും ഞാൻ സൂചിപ്പിച്ചിരുന്നു ഒരു ഗ്രാഫിക്കൽ സമീപനത്തിൽ ഈ അധ്യായത്തിൽ നിന്ന് പഠിച്ചുകഴിഞ്ഞാൽ എനിക്ക് എനർജി റിലീസ് റേറ്റ് കണക്കാക്കാം കഴിഞ്ഞ ക്ലാസിലും നമ്മൾ ഒരു പ്രസ്താവന നടത്തി ഒരു ജനറിക് ലോഡിങ് നിങ്ങൾക്ക് സ്ഥിരമായ ലോഡും നിരന്തരമായ സ്ഥാനചലനവും കൂടിച്ചേർന്നതാണ് അതിനാൽ ഒരു ലഭ്യമായ കണക്കുകൂട്ടലായി നിങ്ങൾക്ക് ഫലങ്ങൾ ലഭിക്കുന്നത് സൌകര്യപ്രദമാണ് നിരന്തരമായ ലോഡിൽ സംഭവിക്കുന്നത് നിരന്തരമായ സ്ഥാനചലനത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്താണ് ഇപ്പോൾ വെല്ലുവിളി നിറഞ്ഞ ചോദ്യം എനിക്ക് ഒരു വിള്ളൽ ഉള്ള ഒരു ഘടകം ഉണ്ടെന്ന് കരുതുക ഒരു വിള്ളലിന്റെ സാന്നിധ്യത്തിൽ സമ്മർദ്ദ ഊർജ്ജം എങ്ങനെ കണ്ടെത്താം ഗ്രിഫിത്ത് എന്താണ് ചെയ്തത് വൃത്താകൃതിയിലുള്ള ദ്വാരമുള്ള ഒരു പ്ലേറ്റ് എലിപ്റ്റിക്കൽ ദ്വാരമുള്ള ഒരു പ്ലേറ്റ് എന്നിവയുടെ ഉദാഹരണത്തെ തുടർന്ന് ഗ്രിഫിത്ത് ഒരു കേന്ദ്ര വിള്ളലിന്റെ പ്രശ്നം എടുത്തു സെൻട്രൽ ക്രാക്കിനൊപ്പം ഏകീകൃത ടെന്ഷനു വിധേയമായ അനന്തമായ പ്ലേറ്റിന്റെ പ്രശ്നം അദ്ദേഹം പരിഗണിച്ചു ഇപ്പോൾ ഒരു വിള്ളലിന്റെ സാന്നിധ്യത്തിൽ സമ്മർദ്ദ ഊർജ്ജം എങ്ങനെ കണ്ടെത്താം എന്നതാണ് ചോദ്യം ഒരു ലളിതമായ സമീപനം ഡൈമൻഷണൽ വിശകലനം ആകാം രണ്ടാമത്തെ സാധ്യത ഒരു റിലാക്സേഷൻ അനലോഗി ചെയ്യുക എന്നതാണ് മൂന്നാമത്തെ സാധ്യത ക്രാക്ക് ഫെയ്സ് ഡിസ്പ്ലേസ്മെന്റുകളെ അടിസ്ഥാനമാക്കി യഥാർത്ഥ കണക്കുകൂട്ടലുകൾ നടത്തുക എന്നതാണ് ഒരു വിള്ളലിന്റെ സാന്നിധ്യത്തിൽ ബുദ്ധിമുട്ട് കണ്ടെത്താനുള്ള ഏറ്റവും കൃത്യമായ മാർഗ്ഗം അതായിരിക്കും എന്നാൽ ഇപ്പോൾ അത്തരം ഒരു കണക്കുകൂട്ടൽ നടത്താൻ ആവശ്യമായ അളവുകൾ നമ്മുടെ പക്കലില്ല നിങ്ങൾ അത് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ക്രാക്ക് ടിപ്പിന് സമീപമുള്ള സമ്മർദ്ദത്തെയും സ്ഥാനചലന മേഖലകളെയും കുറിച്ചുള്ള അറിവ് നാം അറിയേണ്ടതുണ്ട് ഒരിക്കൽ നമ്മൾ ക്രാക്ക് ടിപ്പ് സ്ട്രെസ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡുകൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ സ്ഥാനചലനവും സ്ട്രെസ് ഫീൽഡും വികസിപ്പിക്കുകയും പിന്നീട് തിരിച്ചുവന്ന് ഈ കണക്കുകൂട്ടലുകൾ നടത്തുകയും സ്വയം തൃപ്തിപ്പെടുത്തുകയും ചെയ്താൽ ഒരു വിള്ളലിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ട് കണ്ടെത്താൻ കഴിയും ഒരു ഗണിതശാസ്ത്ര നിലപാട് കൃത്യമായി നിലവിലെ ചർച്ചയ്ക്കായി നമ്മൾ ഒരു കേന്ദ്ര വിള്ളലിനായി നോക്കും ഒപ്പം ഈ വിവരങ്ങൾ പ്രധാനമായി സൂക്ഷിക്കുകയും ചെയ്യും രണ്ട് അറ്റമുള്ള വിള്ളൽ വളരെ സൂക്ഷ്മമായ പോയിന്റാണ് പക്ഷേ തുല്യപ്രാധാന്യമുള്ളതാണ് സ്ട്രെയിൻ എനർജി Ua എന്നത് പൈ സിഗ്മ സ്ക്വയർ ഗുണിക്കണം എ സ്ക്വയർ ഹരിക്കണം E ആണ് ഇത് ഒരു കേന്ദ്ര വിള്ളലിന് വേണ്ടിയാണ് സെൻട്രൽ ക്രാക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് രണ്ട് ടിപ്പുകൾ ഉപയോഗിച്ച ക്രാക്ക് ആണ് നിങ്ങൾ ഇവിടെ കണ്ട ഫലം എന്തായാലും ഒരേ കനം ഉള്ള അനന്തമായ പാനലിനായിരിക്കും അതിനാൽ ഇത് ഒന്ന് കൊണ്ട് ഗുണിക്കപ്പെടുന്നു നിങ്ങൾ ഡൈമൻഷണൽ വീക്ഷണകോണിൽ നോക്കുകയാണെങ്കിൽ ഇത് ഊർജ്ജത്തിനായുള്ള ആവിഷ്കാരത്തെ തൃപ്തിപ്പെടുത്തുന്നു 'a' എന്ന പ്രത്യയം ഒരു വിള്ളലിന്റെ സാന്നിധ്യത്തിൽ സമ്മർദ്ദത്തെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ നമ്മൾ എന്തുചെയ്യും ഈ പദപ്രയോഗം എങ്ങനെ കാണാമെന്ന് സ്വയം തൃപ്തിപ്പെടുത്തുന്നതിനായി നമ്മൾ ഒരു റിലാക്സേഷൻ അനലോഗി നോക്കും എന്നാൽ ആത്യന്തികമായി നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടുത്താൻ കഴിയും നിങ്ങൾ യഥാർത്ഥ കണക്കുകൂട്ടൽ നടത്തുമ്പോൾ മാത്രമേ ഇത് നമ്മൾ ഈ നിമിഷം മാറ്റിവയ്ക്കുകയുള്ളൂ എന്നിരുന്നാലും നമുക്ക് അത് പരിശോധിക്കാം ഇപ്പോൾ ഞാൻ വിശ്രമ അനലോഗി നോക്കാം ഞാൻ ഇവിടെ ചെയ്യുന്നത് ഞാൻ 'B' കനമുള്ള ഒരു പ്ലേറ്റ് എടുക്കുന്നു ഫ്രാക്ചർ മെക്കാനിക്സിലെ ശരിയോ തെറ്റോ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതിനാൽ കനം സൂചിപ്പിക്കാൻ അവർ 'B' എന്ന ചിഹ്ന മൂലധനം ഉപയോഗിച്ചു നിങ്ങളുടെ ധാരണയുടെ ഉദ്ദേശ്യത്തിനായി നിങ്ങൾക്ക് അത് ഒരു റബ്ബർ പ്ലേറ്റായി കണക്കാക്കാം നിങ്ങൾക്ക് ഒരു സൈക്കിൾ ട്യൂബ് എടുത്ത് അത് മുറിച്ച് അതിൽ നിന്ന് ഒരു ഷീറ്റ് ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തുചെയ്യുന്നു നിങ്ങൾ അത് എടുത്ത് വലിച്ചുനീട്ടുക എന്നിട്ട് മുറുകെ കെട്ടുക പിന്നെ ഞാൻ ചെയ്യുന്നത് നടുവിൽ ഒരു വിള്ളൽ അവതരിപ്പിക്കുക എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെന്തും ഒരു പൊട്ടുന്ന മെറ്റീരിയലിനായിട്ടാണെന്ന് ഓർമ്മിപ്പിക്കുക പക്ഷേ വിഷ്വലൈസേഷൻ ആവശ്യത്തിനായി നിങ്ങൾക്ക് ഒരു റബ്ബർ ഷീറ്റ് എടുത്ത് എന്താണ് സംഭവിക്കുക എന്ന് നോക്കുന്നത് സൌകര്യപ്രദമാണ് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഞാൻ വിള്ളൽ അവതരിപ്പിക്കുന്നുവെന്ന് കരുതുക ഒരു പരിധിവരെ വിള്ളൽ സ്ഥിരമായി തുടരും ഒരു നീളത്തിനപ്പുറം വിള്ളൽ പ്രചരിപ്പിക്കുകയും സ്ട്രിപ്പ് സ്വയം വേർതിരിക്കുകയും ചെയ്യും ഇത് നിങ്ങൾക്ക് ശാരീരികമായി ദൃശ്യവൽക്കരിക്കാനാകും വിള്ളലിന്റെ രൂപവത്കരണത്തിന് നിങ്ങൾക്ക് ഉപരിതലങ്ങൾ രൂപപ്പെടേണ്ടതുണ്ട് കൂടാതെ ഉപരിതലങ്ങൾ രൂപപ്പെടുന്നതിന് ഊർജ്ജം ആവശ്യമാണ് ഈ ഊർജ്ജം സിസ്റ്റത്തിന്റെ സമ്മർദ്ദ ഊർജ്ജത്തിൽ നിന്നാകുമായിരുന്നു നമ്മൾ വിശകലനം ചെയ്യുന്ന സാഹചര്യം എന്താണ് നമ്മൾ ഫിക്സഡ് ഗ്രിപ്പിലേക്കാണ് നോക്കുന്നത് അതിനാൽ ബാഹ്യ ജോലികളൊന്നും നടക്കുന്നില്ല വിള്ളൽ എങ്ങനെയാണുള്ളതെന്ന് നമ്മൾ നോക്കാം ഈ രണ്ട് ഉപരിതലങ്ങളുടെ രൂപവത്കരണത്തിന് നീട്ടിയ പ്ലേറ്റിന്റെ ബുദ്ധിമുട്ട് ഊർജ്ജത്തിൽ നിന്ന് കുറച്ച് ഊർജ്ജം പുറത്തുവരുമായിരുന്നു മാത്രമല്ല ഈ ഊർജ്ജത്തിന്റെ അളവ് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് നമ്മൾ ഒരു ലളിതമായ കണക്കുകൂട്ടൽ നടത്തുകയും നമ്മുടെ ജീവിതം ലളിതമാക്കുകയും ചെയ്യും വിള്ളലിന്റെ സമീപപ്രദേശത്തുള്ള ഒരു ത്രികോണ പ്രദേശമാണ് രണ്ട് പുതിയ ഉപരിതലങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഊർജ്ജം പുറത്തുവിടുന്നത് ഇത് ഏത് ആകൃതിയും ആകാം ഒരു വിള്ളലിന്റെ സാന്നിധ്യത്തിൽ ബുദ്ധിമുട്ട് കണ്ടെത്തുന്നതിനുള്ള ലളിതമായ കണക്കുകൂട്ടൽ രീതി വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണിത് നമ്മൾ കണക്കുകൂട്ടലുകൾ കണ്ടെത്തും മുമ്പത്തെ ഉദാഹരണങ്ങളിൽ നമ്മൾ ഇതിനകം തന്നെ സ്ട്രെയിൻ എനർജിയുടെ രൂപം പരിശോധിച്ചു അവിടെ സിഗ്മ സ്ക്വയർ ഹരിക്കണം 2 ഗുണിക്കണം യംഗ്സ് മോഡുലസ് ആണ് ഇത് വോളിയത്താൽ ഗുണിക്കുന്നു ഇവിടെ ത്രികോണങ്ങളുടെ വ്യാപ്തം എനിക്ക് രണ്ട് ത്രികോണങ്ങളുണ്ട് അതിനാൽ എനിക്ക് ഇവിടെ രണ്ട് ഉണ്ട് പകുതി BH നമ്മൾ ഉയരം ലാംഡ തവണ a എന്ന് കണക്കാക്കുന്നു കൂടാതെ ലാംഡയെ ഇവിടെ ആനുപാതികമായ സ്ഥിരാങ്കമായി ഉപയോഗിക്കുന്നു ഇത് ഒരു തരംഗദൈർഘ്യത്തെ സൂചിപ്പിക്കുന്നില്ല കാരണം ലാംഡയെ തരംഗദൈർഘ്യമായി കാണുന്നത് നമ്മൾ പതിവാണ് ഇത് ആനുപാതികമായ സ്ഥിരാങ്കമായി ഇവിടെ ഉപയോഗിക്കുന്നു നിങ്ങൾ ഇത് ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പദപ്രയോഗം ലഭിക്കും 2 ഗുണിക്കണം ലാംഡ a സ്ക്വയർ B സിഗ്മ സ്ക്വയർ ഹരിക്കണം E നോക്കൂ നമ്മൾ ഒരു റിലാക്സേഷൻ അനലോഗി മാത്രമാണ് ചെയ്യുന്നത് വിള്ളലുകൾ രൂപപ്പെടുന്നതിന് നൽകിയ സിസ്റ്റത്തിൽ നിന്ന് സ്ട്രെയിൻ എനെർജി പുറത്തുവരുമെന്ന് തോന്നുക എന്നതാണ് നമ്മൾ റിലാക്സേഷൻ നോക്കിക്കാണുന്നുവെന്ന് വ്യക്തമാക്കുന്ന ആശയം വിള്ളൽ മുഖങ്ങളുടെ സ്ഥാനചലനങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട സ്ട്രെസ് ഫീൽഡിനെക്കുറിച്ചും നിങ്ങൾ ഗണിതശാസ്ത്രപരമായ കണക്കുകൂട്ടൽ നടത്തുമ്പോൾ മാത്രമേ നമുക്ക് തൃപ്തിപ്പെടാൻ കഴിയൂ അത് ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് സമയം കൂടി ആവശ്യമാണ് ഇപ്പോൾ നാം ഒരു സാമ്യത മാത്രമേ നോക്കുകയുള്ളൂ മാത്രമല്ല നാം ഒരു വശം കൂടി കൊണ്ടുവരുന്നു നാം ഒരു നേർത്ത പ്ലേറ്റ് എടുത്തു നാം ശരിക്കും ഒരു പ്ലെയിൻ സ്ട്രെസ് സാഹചര്യം പരിഗണിക്കുന്നു പ്ലെയിൻ സ്ട്രെസ് അവസ്ഥയ്ക്ക് ലാംഡയെ പൈ ഹരിക്കണം 2 ആയി കണക്കാക്കുന്നു സ്ഥാനചലനങ്ങളെയും സമ്മർദ്ദ മേഖലയെയും അടിസ്ഥാനമാക്കി നമ്മൾ യഥാർത്ഥത്തിൽ കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ ഇതും വ്യക്തമാകും അതിനാൽ ഞാൻ ഇത് ചെയ്യുമ്പോൾ ഇത് Ua സമം പൈ a സ്ക്വയർ B സിഗ്മ സ്ക്വയർ ഹരിക്കണം E ആണ് മുമ്പത്തെ പദപ്രയോഗം നമ്മൾ കണ്ടത് ഒരു പ്ലേറ്റ് യൂണിറ്റ് കട്ടിയുള്ളതായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് B യുടെ കനം ഉണ്ട് നിങ്ങൾ എന്താണ് ഇവിടെ കാണുന്നത് ഒരു വിള്ളലിന്റെ സാന്നിധ്യത്തിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം ഒരു ചതുരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ വിള്ളലിന്റെ നീളം മാറുമ്പോൾ ഊർജ്ജം ഒരു പരാബോള സെക്കൻഡ് ഡിഗ്രി കർവ് ആയി മാറും ഇപ്പോൾ നമുക്ക് രണ്ട് പുതിയ പ്രതലങ്ങളുടെ രൂപവത്കരണത്തിനായി നോക്കാം ഈ രണ്ട് സ്വഭാവങ്ങളും പരിശോധിച്ചാൽ നമുക്ക് മനസിലാക്കാൻ കഴിയും ഒരു വിള്ളൽ വളർച്ചാ ഘട്ടവും ഒരു വിനാശകരമായ വിള്ളൽ പ്രചാരണവും ഉണ്ടാകാം നാം അവയെ വരയ്ക്കാൻ ശ്രമിക്കും അതിനാൽ ഇതാണ് എനിക്ക് ഇവിടെയുള്ളത് ഫിക്സഡ് ഗ്രിപ്പിലെ ഉപരിതലത്തിന്റെയും സമ്മർദ്ദത്തിന്റെയും വ്യത്യാസമെന്താണ് നിങ്ങൾ ഇത് മറക്കരുത് നമ്മൾ ശരിക്കും ഫിക്സഡ് ഗ്രിപ്പിലാണ് നോക്കുന്നത് ഫിക്സഡ് ഗ്രിപ്പ് എന്നത് നിരന്തരമായ സ്ഥാനചലനം എന്നാണ് ഒരു ഉപരിതലത്തിന്റെ യൂണിറ്റ് വിസ്തീർണ്ണത്തിന്റെ ഉപരിതല ഊർജ്ജമാണ് ഗാമ B കട്ടിയുള്ള ഒരു മോഡലിന് ആവശ്യമായ ഉപരിതല ഊർജ്ജം 2 ഗുണിക്കണം 2a ഗുണിക്കണം B ഗുണിക്കണം ഗാമ ആണ് ഇതിനെ യു സഫിക്സ് s എന്ന് സൂചിപ്പിക്കുന്നു ഈ അന്തിമ പദപ്രയോഗം നോക്കുകയാണെങ്കിൽ അത് 4a ഗുണിക്കണം B ഗാമ s ആയി മാറുന്നു ഇത് വിള്ളലിന്റെ നീളത്തിന്റെ ഒരു രേഖീയ പ്രവർത്തനമാണ് വിള്ളലിന്റെ നീളം മാറുമ്പോൾ ഇത് രേഖീയമായി വ്യത്യാസപ്പെടും ഈ വ്യതിയാനം ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും അവിടെ എക്സ് ആക്സിസ് വിള്ളലിന്റെ നീളമായും Y അക്ഷം ഊർജ്ജമായും എടുക്കുന്നു ഇത് വ്യക്തമായും ഒരു നേർരേഖയായിരിക്കും നമ്മൾ അത് വരക്കും അതിനാൽ എനിക്ക് ഇത് ഒരു ക്രാക്ക് ദൈർഘ്യത്തിന്റെ പ്രവർത്തനമായി ഒരു നേർരേഖയായി ഉണ്ട് ഇത് ഉപരിതല ഊർജ്ജത്തെ സൂചിപ്പിക്കുന്നു ഒരു വിള്ളലിന്റെ സാന്നിധ്യത്തിൽ സ്ട്രെയിൻ എനർജി എന്താണെന്നതിന്റെ ഫലം നമുക്ക് ഇതിനകം ലഭിച്ചു ഇത് രണ്ടാമത്തെ ഡിഗ്രി വക്രമാണ് Ua എന്നതിന് തുല്യമായി പൈ a സ്ക്വയർ B സിഗ്മ സ്ക്വയറിനെ E കൊണ്ട് ഹരിച്ചതായി നിങ്ങൾക്ക് ഇതിനകം ലഭിച്ചു ഇത് ഈ രീതിയിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നു ദയവായി ശ്രദ്ധിക്കുക ഇത് യഥാർത്ഥ മൂല്യങ്ങളോടെ വരയ്ക്കാത്ത ഒരു സ്കീമാറ്റിക് മാത്രമാണ് ഉപരിതല ഊർജ്ജത്തിന്റെ സ്വഭാവം സ്ട്രെയിൻ എനർജിയുടെ സ്വഭാവം വ്യക്തമാക്കുന്നതിനുള്ള ഒരു പദ്ധതി മാത്രമാണ് ഇത് ഈ ഫാഷനിൽ മാറ്റം വരുത്തുന്ന ആകെത്തുക എന്താണെന്ന് ഞാൻ കണ്ടെത്തി എന്ന് കരുതുക അത് ഇതുപോലെ മാറും ചരിവ് ഒരു പ്രത്യേക ഘട്ടത്തിൽ 0 ആയി മാറും ഇത് പ്രദേശത്തെ സ്ഥിരമായ വിള്ളൽ വളർച്ചയിൽ നിന്ന് ഒടിവിലേക്ക് വേർതിരിക്കുന്നു ആ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് നിർണ്ണായക വിള്ളൽ ദൈർഘ്യം ലഭിക്കും ഇത് നിർണ്ണായക വിള്ളൽ ദൈർഘ്യത്തെ സൂചിപ്പിക്കും അതിനാൽ നിങ്ങൾക്ക് ക്രാക്ക് ഗ്രോത്ത് മെക്കാനിസം വഴി ക്രാക്ക് വളർച്ച വർദ്ധിക്കുന്ന ഒരു പ്രദേശമുണ്ട് ഈ മേഖലയിൽ ഇത് ഫ്രാക്ചർ മെക്കാനിസത്തിന്റെ വിനാശകരമായ വിള്ളൽ വളർച്ചയാണ് ഇത് ചിത്രീകൃതമായി നൽകിയിരിക്കുന്നു ഇത് അളവനുസരിച്ച് ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ നമ്മൾ ഇത് ഒരു ഗണിതശാസ്ത്ര നിലപാടിൽ നിന്ന് നോക്കും പക്ഷേ നിങ്ങൾ ഈ ഡയഗ്രാമിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വളരെ വ്യക്തമാക്കുന്നു അതിനാൽ വേഗത്തിൽ പ്രചരിക്കുന്ന ഒരു നിർണ്ണായക വിള്ളൽ നീളം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും നമ്മൾ ശരിക്കും നോക്കുന്നത് സംഭവിക്കാൻ പോകുന്ന വിള്ളലിന്റെ ദൈർഘ്യത്തിലുള്ള വർദ്ധനവാണ് അതിനാൽ വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ആവശ്യകത നിറവേറ്റണമെന്ന് നമ്മൾ ശരിക്കും നോക്കുകയാണ് ഗണിതശാസ്ത്രപരമായി നിങ്ങൾ ഇത് എങ്ങനെ എഴുതും ഒരു വിള്ളലിന്റെ സാന്നിധ്യത്തിൽ സമ്മർദ്ദ ഊർജ്ജത്തിന്റെ മാറ്റം വിള്ളലുമായി ബന്ധപ്പെട്ട് ഉപരിതല ഊർജ്ജത്തിന്റെ മാറ്റത്തിന് തുല്യമായിരിക്കണം അതിനാൽ ഡോ Ua ഡോ a കൊണ്ട് ഹരിച്ചാൽ ഉപരിതല ഊർജ്ജത്തിന്റെ ഇരട്ടിയേക്കാൾ കൂടുതലാണ് ഫ്രാക്ചർ മെക്കാനിക്സിനോടുള്ള ഗ്രിഫിത്തിന്റെ സമീപനത്തിൽ പ്രധാനമാണിത് രണ്ട് പുതിയ പ്രതലങ്ങളുടെ രൂപവത്കരണത്തിന് ഊർജ്ജം ആവശ്യമാണെന്നും ഫിക്സഡ് ഗ്രിപ്പിലേക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഈ ഊർജ്ജം സമ്മർദ്ദ ഊർജ്ജത്തിൽ നിന്നാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത് തൃപ്തിപ്പെടുമ്പോൾ വിള്ളൽ വളരും ഇപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം 'ഡോ a' യുമായി ബന്ധപ്പെട്ട് വേർതിരിച്ചറിയാൻ നിങ്ങൾ പ്രലോഭിപ്പിക്കപ്പെടുമെന്ന് കാണുക ഇത് ശരിക്കും സൂചിപ്പിക്കുന്നത് വിള്ളലിന്റെ നീളം നമുക്ക് ലഭിച്ച സംഖ്യകളിൽ നിങ്ങൾ ഒരു a യുമായി ബന്ധപ്പെട്ട് വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ 2a യുമായി ബന്ധപ്പെട്ട് വ്യത്യാസമുണ്ടോ എന്ന് നമുക്ക് ലഭിച്ച പദപ്രയോഗങ്ങൾ ഇടത് വലത് വശത്ത് വിശകലനം ചെയ്യാൻ പോകുന്നു അന്തിമഫലം സമാനമായിരിക്കും a യുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇതിനെ വേർതിരിച്ചറിയുകയാണെങ്കിൽ ഇത് പൈ സിഗ്മ സ്ക്വയർ 2a ഹരിക്കണം E 4 ഗാമാ s ന് തുല്യമാണ് 2a സംബന്ധിച്ച് നിങ്ങൾ വേർതിരിച്ചറിയുകയാണെങ്കിൽ പൈ സിഗ്മ സ്ക്വയർ ഹരിക്കണം E 2 ഗാമാ s ന് തുല്യമാണ് വാസ്തവത്തിൽ നിങ്ങൾ ഇത് ലളിതമാക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഘട്ടത്തിലേക്ക് വരും എന്നാൽ 'a' എന്നതുമായി വേർതിരിക്കരുത് കാരണം ഒരു കേന്ദ്ര വിള്ളലിന്റെ പ്രശ്നമാണ് അദ്ദേഹം പരിഗണിച്ചതെന്ന് ഞാൻ ഇതിനകം ഊന്നിപ്പറഞ്ഞു നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കേന്ദ്ര വിള്ളൽ നോക്കുന്ന നിമിഷം അതിൽ രണ്ട് ക്രാക്ക് ടിപ്പുകൾ ഉണ്ട് ഈ സമവാക്യങ്ങൾ ശരിയായി വ്യാഖ്യാനിക്കണമെങ്കിൽ 2a സംബന്ധിച്ച് നിങ്ങൾ വേർതിരിക്കേണ്ടതുണ്ട് അതിനാൽ ജാഗ്രത ഇത് ഇതുപോലെയാക്കരുത് ഇത് പോലെ ചെയ്യുക എനർജി റിലീസ് റേറ്റിന്റെ നിർവചനത്തിൽ പോലും നാം ഓരോ ക്രാക്ക് ടിപ്പിനും ഊർജ്ജം കൊണ്ടുവരും അത് വളരെ പ്രധാനമാണ് അതിനാൽ പൈ സിഗ്മ സ്ക്വയറിനെ E കൊണ്ട് ഹരിച്ചാൽ 2 ഗാമ s എന്ന് നമുക്ക് അന്തിമ പദപ്രയോഗം ലഭിക്കുന്നു ഇത് സിഗ്മ റൂട്ട് a സമം 2E ഗാമ s ഹരിക്കണം പൈ ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു പദപ്രയോഗം ആണ് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ മുന്നേറ്റത്തിൽ ഗ്രിഫിത്തിന്റെ പ്രതീകാത്മക ഘട്ടം കാരണം ഒരു വിള്ളലിന്റെ സാന്നിധ്യത്തിൽ ഒടിവ് ശക്തി കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഈ പദപ്രയോഗത്തെ 2E ഗാമ s യുടെ സ്ക്വയർ റൂട്ട് ഹരിക്കണം പൈ a എന്ന് നിങ്ങൾക്ക് വ്യത്യസ്തമായി കാണാൻ കഴിയും ഇടത് വശത്ത് ഞാൻ a പുറത്തെടുത്തു അതിനാൽ ഇത് സിഗ്മ റൂട്ട് a ആയി ദൃശ്യമാകുന്നു ഇതുപോലുള്ള ഒരു പദപ്രയോഗം വികസിപ്പിച്ചു കഴിഞ്ഞാൽ അത് പരീക്ഷണാത്മകമായി ന്യായീകരിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലാത്തപക്ഷം നിങ്ങൾക്ക് ഗണിതശാസ്ത്ര വികാസത്തിൽ സംതൃപ്തിയുണ്ടാകില്ലെന്ന് നിങ്ങൾക്കറിയാം ഇത് സ്ഥാപിക്കുന്നതിനായി ഗ്രിഫിത്ത് നടത്തിയ പരീക്ഷണം എന്താണ് ആന്തരിക സമ്മർദ്ദത്തിന് വിധേയമായ ഗ്ലാസ് ട്യൂബുകളിലും ഗോളാകൃതിയിലുള്ള പാത്രങ്ങളിലും ഗ്രിഫിത്ത് നിരവധി പരീക്ഷണങ്ങൾ നടത്തി ഗ്രിഫിത്തിന്റെ മിക്കവാറും എല്ലാ ജോലികളും പൊട്ടുന്ന സോളിഡുകളിൽ ഒതുങ്ങിയിരുന്നുവെന്നതും നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് അതിനാൽ ഊർജ്ജ പ്രകാശന നിരക്ക് ആശയം ആദ്യം വികസിപ്പിച്ചെടുത്തത് പൊട്ടുന്ന വസ്തുക്കൾക്കാണ് പിന്നീട് ഇർവിനും ഒറോവാനും ഉയർന്ന കരുത്തുള്ള ഡക്റ്റൈൽ സോളിഡുകൾക്കായി ഇത് വിപുലീകരിച്ചു അത് ചെയ്യുന്നതുവരെ നമ്മുടെ ചർച്ചകളെല്ലാം പൊട്ടുന്ന വസ്തുക്കളിൽ ഒതുങ്ങുന്നു പൊട്ടുന്ന വസ്തുവിന്റെ പ്രയോജനം എന്താണ് പൊട്ടുന്ന ഒരു വസ്തുവിൽ ആ വിള്ളൽ ഭേദമാകുമെന്ന് നാം ഇതിനകം കണ്ടു അത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അത്തരമൊരു ഉദാഹരണവും നാം കണ്ടു ഊർജ്ജ കാഴ്ചപ്പാടിൽ നിങ്ങൾ സമീപിക്കുമ്പോൾ നിങ്ങൾ ഒരു യാഥാസ്ഥിതിക സംവിധാനത്തിലേക്ക് നോക്കുകയാണ് അതിനാൽ ഊർജ്ജ രീതി എളുപ്പത്തിൽ ബാധകമാണ് ഗ്ലാസ് ട്യൂബുകളും ഗോളങ്ങളും എന്ന് നിങ്ങൾ പറയുമ്പോൾ അവ പ്രീ ക്രാക്കുചെയ്ത് അവശേഷിക്കുന്ന സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിൽ അവ ഇല്ലാതാക്കുന്നു അതിനാൽ പരീക്ഷണം നടത്താൻ അദ്ദേഹം മതിയായ മുൻകരുതലുകൾ എടുത്തിരുന്നു അദ്ദേഹം സമ്മർദ്ദങ്ങൾ വർദ്ധിപ്പിച്ചു സിഗ്മ റൂട്ട് a യുടെ മൂല്യം എന്താണെന്ന് അദ്ദേഹം കണക്കാക്കി ഇത് 0 25 മുതൽ 0 28 MPa റൂട്ട് മീറ്റർ വരെയാണ് 25 മുതൽ 0 28 വരെയുള്ള ശ്രേണിയിൽ അയാൾക്ക് കുറച്ച് മൂല്യം ലഭിച്ചുവെന്ന് നോക്കൂ ഇതിൽ നിന്ന് അദ്ദേഹത്തിന് ഇടത് വശത്തെ പദപ്രയോഗം ലഭിച്ചു 'സിഗ്മ റൂട്ട് എ' നേടാൻ കഴിഞ്ഞു നിങ്ങൾക്ക് വലതുവശത്തെ എക്സ്പ്രഷൻ ലഭിക്കുന്നതിന് ഉപരിതല ഊർജ്ജത്തിന്റെ മൂല്യം നേടേണ്ടതുണ്ട് ഗ്ലാസിലെ ഉപരിതല ഊർജ്ജം കണക്കാക്കേണ്ടതുണ്ട് അത്തരം ബുദ്ധിമുട്ടുള്ള പരീക്ഷണങ്ങൾ നടത്താൻ ഗ്രിഫിത്തിനെ നിങ്ങൾ അഭിനന്ദിക്കേണ്ടതാണെന്ന് നിങ്ങൾക്കറിയാം ഗ്ലാസിന്റെ ഉപരിതല പിരിമുറുക്കം താപനിലയുടെ ഒരു രേഖീയ പ്രവർത്തനമാണെന്ന് അദ്ദേഹം കണക്കാക്കി നല്ല ഏകദേശ രൂപം എഞ്ചിനീയർമാർ എല്ലായ്പ്പോഴും ഇങ്ങനെയാണ് ഏകദേശമായി കണക്കാക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം നമ്മൾ നേർരേഖകളോട് വളരെ അടുത്താണ് നമ്മൾ എല്ലായ്പ്പോഴും എന്തും രേഖീയമായി എടുക്കാൻ താൽപ്പര്യപ്പെടുന്നു അത് നമ്മുടെ ആവശ്യകതയെ പൂർത്തിയാക്കുന്നുവെങ്കിൽ നമ്മൾ അത് ഉപേക്ഷിക്കുന്നു കഴിയുന്നത്ര ലീനിയറിറ്റി ഒഴിവാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഗ്ലാസ് നാരുകളുടെ ഉപരിതല പിരിമുറുക്കത്തിന്റെ മൂല്യങ്ങൾ 1110 ഡിഗ്രി സെന്റിഗ്രേഡിനും 745 ഡിഗ്രി സെന്റിഗ്രേഡിനുമിടയിൽ ഊഷ്മാവിൽ നിന്ന് അദ്ദേഹം വിശദീകരിച്ചു ആ വ്യായാമത്തിൽ ഗ്ലാസിന്റെ ഉപരിതല ഊർജ്ജം മീറ്ററിന് 0 54 ന്യൂട്ടൺ ആയി കണക്കാക്കാം ഗ്ലാസിനുള്ള E ഏകദേശം 62 GPa ആണ് ഈ പദപ്രയോഗം വിലയിരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഗ്ലാസിന്റെ 2 ഗാമായുടെ റൂട്ട് ഗുണിക്കണം E ഹരിക്കണം പൈ നിങ്ങൾക്ക് 0 15 MPa റൂട്ട് മീറ്റർ ലഭിക്കും അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളിൽ ലഭിച്ചതിന് സമാനമാണോ ഇത് അത് സമാനമല്ല ഈയിടെയായി വിദ്യാർത്ഥികൾ പരീക്ഷണങ്ങൾ നടത്തുകയും പരീക്ഷണം നിരസിക്കപ്പെടുമെന്ന് ഭയന്ന് അതിനെ സിദ്ധാന്തവുമായി താരതമ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ രണ്ടാമത്തെ ദശാംശ സ്ഥാനത്തെ വ്യത്യാസം മാത്രമേ അവർ റിപ്പോർട്ടു ചെയ്യൂ ഞാൻ പരാമർശിക്കുന്നു നിങ്ങൾ ഒരു പരീക്ഷണം നടത്തുമ്പോൾ നിങ്ങൾക്ക് വിശ്വസ്തതയോടെ ലഭിച്ച ഫലങ്ങൾ റിപ്പോർട്ടുചെയ്യാൻ പഠിക്കണം പരീക്ഷണാത്മകവാദികൾ അങ്ങേയറ്റം സത്യസന്ധരായിരിക്കണം കാരണം നിങ്ങൾ ആദ്യം വിചാരിച്ചതിലും കൂടുതൽ വിവരങ്ങൾ മൂല്യങ്ങൾ വഹിച്ചേക്കാം ഫാറ്റിഗ് പരീക്ഷണത്തിന്റെ കാര്യത്തിൽ ധാരാളം ചിതറലുകൾ നമ്മൾ കണ്ടു അത് നന്നായി നടത്തിയ പരീക്ഷണമാണ് അതിനാൽ നിങ്ങൾ സിദ്ധാന്തവും പരീക്ഷണവും താരതമ്യം ചെയ്യുമ്പോൾ അവ വളരെ അടുത്തായിരിക്കുമെന്ന് കരുതരുത് അല്ലാതെ നിങ്ങൾ ഒരു ബെഞ്ച്മാർക്ക് പ്രശ്നം എടുക്കുന്നു സിദ്ധാന്തം നന്നായി മനസിലാക്കുന്നു കൂടാതെ പരീക്ഷണം വളരെ ശ്രദ്ധാപൂർവ്വം നടത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പരസ്പരബന്ധം ഉണ്ടാകില്ല എന്നിരുന്നാലും ഈ കേസിൽ മാഗ്നിറ്റ്യൂഡുകളുടെ ക്രമം പരിശോധിക്കുകയാണെങ്കിൽ ഒരു പരസ്പരബന്ധം തീർച്ചയായും നിലനിൽക്കും നിങ്ങൾ പദപ്രയോഗങ്ങൾ വികസിപ്പിച്ച രീതിയിൽ ഇത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നു 'സിഗ്മ റൂട്ട് a' എന്നത് '2 ഗാമ s E ഹരിക്കണം പൈ' എന്നത് അർത്ഥവത്തായ ഒരു ഘട്ടമാണ് ഗ്രിഫിത്ത് ഈ പ്രശ്നത്തെ ശരിക്കും സമീപിച്ചത് ഏത് സാഹചര്യത്തിലാണെന്നും നമ്മൾ പരിശോധിക്കും ഫ്രാക്ചർ മെക്കാനിക്സ് വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം മനസ്സിൽ കരുതിയിരുന്നില്ല ആ വീക്ഷണകോണിൽ നിന്ന് അദ്ദേഹം പ്രശ്നത്തെ സമീപിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു ഒരു സൈദ്ധാന്തിക നിലപാടിൽ നിന്ന് മെറ്റീരിയലിന്റെ ശക്തി എങ്ങനെ കണക്കാക്കാമെന്ന് ശാസ്ത്രജ്ഞർ ശരിക്കും നോക്കുകയായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ നിങ്ങൾക്ക് ഒരു ആറ്റോമിസ്റ്റിക് മാതൃകയുണ്ട് ഇത് ഒരു സ്ഫടിക സോളിഡ് ആണെന്ന് നിങ്ങൾ പറയുന്നു അതിന്റെ ഒരു രേഖാചിത്രം ഉണ്ടാക്കുക നിങ്ങൾക്ക് ഈ സന്തുലിത സ്ഥാനം ലാറ്റിസ് സ്പേസിംഗ് B നൽകുന്നു ഇതിന്റെ മൂല്യം എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം സമ്മർദ്ദം വേർപിരിയൽ ഉണ്ടാകും അതിനാൽ ഒരു സ്ഫടിക സോളിഡിന്റെ ശക്തി അതിന്റെ ലാറ്റിസ് ഗുണങ്ങളെ അടിസ്ഥാനമാക്കി കണക്കാക്കുക എന്നതാണ് ആശയം ഇതിനായി നിങ്ങൾ ഒരു ഫോഴ്സ് സെപ്പറേഷൻ നിയമത്തിനായി പോകേണ്ടതുണ്ട് ഇത് എങ്ങനെ രൂപപ്പെടുത്തി ഇനിപ്പറയുന്ന മൂന്ന് സവിശേഷതകൾ പ്രദർശിപ്പിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇന്റർ ആറ്റോമിക് ഫോഴ്സ് സെപ്പറേഷൻ നിയമം ഏകദേശം കണക്കാക്കാം നിങ്ങൾക്കറിയാമോ ഞാൻ ഗണിതശാസ്ത്രമില്ലാതെ ഇത് അവതരിപ്പിക്കാൻ പോകുന്നു നമ്മൾ അന്തിമ ഫലങ്ങൾ മാത്രം നോക്കും വാസ്തവത്തിൽ ഏകീകൃത സോൺ മോഡലിംഗിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വ്യത്യസ്ത തരത്തിലുള്ള നിയമങ്ങളുമായി ശരിക്കും കളിക്കുന്നു തുടർന്ന് ഇത് പരിമിത ഘടക മോഡലിംഗിൽ സംയോജിപ്പിച്ച് വിശകലനം ചെയ്യുന്നു വിള്ളലിന് സമീപം പ്ലാസ്റ്റിക് സോൺ എങ്ങനെ വികസിക്കുന്നു അവർ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നു പക്ഷേ നമ്മൾ അതിന്റെ സവിശേഷതകൾ മാത്രമേ നോക്കുകയുള്ളൂ ലാറ്റിസ് പ്രോപ്പർട്ടി കണക്കുകൂട്ടലിനെ അടിസ്ഥാനമാക്കി ആളുകൾക്ക് എങ്ങനെയുള്ള ഫലം ലഭിച്ചുവെന്ന് കാണാനാണ് നമ്മുടെ താൽപ്പര്യം അതിനാൽ ഫോഴ്സ് സെപ്പറേഷൻ നിയമം എനിക്ക് ലഭിക്കണമെങ്കിൽ അത്തരം നിയമം ഞാൻ പരിഗണിക്കേണ്ടതുണ്ട് പ്രാരംഭ ചരിവ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മെറ്റീരിയൽ എന്തായാലും മെറ്റീരിയലിന്റെ ഇലാസ്റ്റിക് മോഡുലസ് E യുമായി യോജിക്കുന്നു രണ്ടാമത്തെ വശം മൊത്തം വേർതിരിക്കലിന്റെ പ്രവർത്തനമാണ് അതായത് വളവിന് കീഴിലുള്ള വിസ്തീർണ്ണം ഉപരിതല ഊർജ്ജം ഗാമാ s യുമായി യോജിക്കുന്നു അതിനാൽ നിങ്ങൾ നോക്കേണ്ടത് സൈദ്ധാന്തിക കണക്കുകൂട്ടൽ നടത്തുന്ന ആളുകൾ ഇതിനകം മറ്റേതെങ്കിലും രൂപത്തിൽ ഉപരിതല ഊർജ്ജത്തിന്റെ പങ്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിനാൽ ഇത്തരത്തിലുള്ള ചിന്ത അക്കാലത്ത് ഉണ്ടായിരുന്നു അതിനാൽ ഇലാസ്റ്റിക് മോഡുലസ് E യുമായി യോജിക്കുന്ന ഒരു പ്രാരംഭ ചരിവ് ലഭിക്കാൻ നിങ്ങൾക്ക് ഫോഴ്സ് സെപ്പറേഷൻ നിയമം ആവശ്യമാണ് കർവിന് കീഴിലുള്ള ഏരിയയിലെ വേർതിരിക്കലിന്റെ ആകെ ജോലി ഉപരിതല ഊർജ്ജ ഗാമയുമായി യോജിക്കുന്നു അവസാനമായി നിങ്ങൾക്ക് അന്തർ ആറ്റോമിക് ഏകീകൃത ശക്തിയെ പ്രതിനിധീകരിക്കുന്ന പരമാവധി മൂല്യം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം അതിനാൽ ഇനിപ്പറയുന്ന മൂന്ന് സവിശേഷതകൾ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോഴ്സ് സെപ്പറേഷൻ നിയമം നേടാനാകും അതിനാൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ നിയമം ഈ രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നു സിഗ്മ X ന്റെ ഫംഗ്ഷൻ E ഗുണിക്കണം ഗാമാ s ഹരിക്കണം b യുടെ അര തവണ "'Eb ഹരിക്കണം ഗാമ s' ന്റെ അര തവണ ഗുണിക്കണം 'x ഹരിക്കണം b'" യുടെ മുഴുവൻ സൈൻ ആയി തന്നിരിക്കുന്നു ഇവിടെ സ്കെച്ചിൽ നിങ്ങൾ കണ്ട സമതുലിത ഇന്റർ ആറ്റോമിക് സ്പേസിംഗിനെ b പ്രതിനിധീകരിക്കുന്നു ഒപ്പം x എന്നത് സന്തുലിത വിഭജന ദൂരത്തിൽ നിന്നുള്ള സ്ഥാനചലനത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് ഒരു ഏകദേശ ബന്ധമുണ്ട് അത് നിങ്ങൾക്ക് വേർപിരിയലിന് ആവശ്യമായ ശക്തി നൽകുന്നു പരമാവധി മൂല്യം എന്താണ് ഇത് നൽകുന്നത് പരമാവധി മൂല്യം സൈദ്ധാന്തിക ശക്തിയല്ലാതെ മറ്റൊന്നുമല്ല സൈദ്ധാന്തിക ശക്തി 'E ഗുണിക്കണം ഗാമ s ഹരിക്കണം b' യുടെ അര തവണ ആണ് യഥാർത്ഥ മൂല്യങ്ങൾ നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇത് വിലമതിക്കാൻ കഴിയൂ എന്ന് കാണുക ഒരു ലാറ്റിസ് കാഴ്ചപ്പാടിൽ നിങ്ങൾക്ക് സൈദ്ധാന്തിക ശക്തി കണക്കാക്കാം പരീക്ഷണങ്ങളിൽ നിന്ന് മെറ്റീരിയൽ പ്രദർശിപ്പിക്കുന്ന യഥാർത്ഥ ശക്തി നിങ്ങൾ കണ്ടെത്തുന്നു വസ്തുവിന്റെ സ്വഭാവം നമ്മൾ ശരിയായി മനസിലാക്കിയിരുന്നെങ്കിൽ എന്റെ സൈദ്ധാന്തിക കണക്കുകൂട്ടൽ പരീക്ഷണ നിരീക്ഷണവുമായി കൂടുതലോ കുറവോ ആയിരിക്കണം ഇത് അങ്ങനെയാണോ അല്ലയോ എന്ന് നമുക്ക് കാണേണ്ടി വരും ഗാമയുടെ മൂല്യം എന്താണെന്നും ആളുകൾ കണ്ടെത്തി പല മെറ്റീരിയലുകൾക്കും ഇത് ഏകദേശം 40 കൊണ്ട് ഹരിച്ചതായി കാണപ്പെടുന്നു അതിനാൽ നിങ്ങൾ ഈ പദപ്രയോഗത്തിന് പകരമായി നൽകുമ്പോൾ സൈദ്ധാന്തിക ശക്തിക്ക് ഒരു മൂല്യം ലഭിക്കും എന്താണ് സൈദ്ധാന്തിക ശക്തി E ഹരിക്കണം 6 പോലെയാകണം വാസ്തവത്തിൽ ഇത് വളരെ ഉയർന്നതാണ് E ഹരിക്കണം 6 എന്നത് ഒരു ചെറിയ മൂല്യമല്ല മിതമായ ഉരുക്കിനായി നമ്മൾ നോക്കും കാരണം മിതമായ ഉരുക്ക് എല്ലാവർക്കും അറിയാം മിതമായ ഉരുക്കിന് നമ്മൾ ഫ്രാക്ചർ മെക്കാനിക്സ് പ്രയോഗിച്ചേക്കില്ലെങ്കിലും പരീക്ഷണ ഫലങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സൈദ്ധാന്തിക ശക്തി കണക്കുകൂട്ടലുകൾക്ക് നിരക്കാത്തതാണ് മിതമായ ഉരുക്ക് ഒരു മികച്ച ഉദാഹരണമാണ് മിതമായ സ്റ്റീലിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യങ്സ് മോഡുലസ് 200 GPa യാണ് അതിനാൽ 200 ഹരിക്കണം 6 33 GPa പോലെയാണ് ഇതിനടുത്തായി മിതമായ ഉരുക്ക് ഇല്ല നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന്റെ യിൽഡ് ശക്തി 220 MPa പോലെയാണ് അത് ആത്യന്തിക ടെൻസൈൽ ശക്തി 320 അല്ലെങ്കിൽ 400 ആണ് അത് മെറ്റീരിയൽ കോമ്പോസിഷനെ ആശ്രയിച്ചിരിക്കുന്നു ഇതെല്ലാം മെഗാപാസ്കലിന്റെ കാര്യത്തിലാണ് അതേസമയം സൈദ്ധാന്തിക ശക്തി ഗിഗാപാസ്കലിന്റെ കാര്യത്തിലാണ് അതായത് സൈദ്ധാന്തിക ശക്തി കണക്കുകൂട്ടലുകൾ അകലെയാണ് എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ ഇതൊരു പസിൽ ആണെന്ന് നിങ്ങൾക്കറിയാം വളരെക്കാലം ആളുകൾ ഈ പസിൽ പരിഹരിക്കാൻ ആഗ്രഹിച്ചു എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് നമ്മൾ പരിശോധിക്കും പരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി ആളുകൾ ഇത് ഒരു വലുപ്പ ഇഫക്റ്റായി ഉപയോഗിച്ചു സൈദ്ധാന്തിക ശക്തി പരീക്ഷണത്തിൽ കാണുന്നതിനേക്കാൾ വളരെ ഉയർന്നത് എന്തുകൊണ്ടാണെന്ന് അവർക്ക് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല എന്നാൽ പരീക്ഷണത്തിൽ അവർ വളരെ രസകരമായ എന്തെങ്കിലും കണ്ടു അത് ലിയോനാർഡോ ഡാവിഞ്ചിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാം നിരന്തരമായ വ്യാസമുള്ള വയറുകളുടെ ശക്തിയും നീളവും തമ്മിലുള്ള വിപരീത ബന്ധം അദ്ദേഹം കണ്ടെത്തി നോക്കൂ രണ്ട് പ്രശ്നങ്ങളുണ്ട് പരമ്പരാഗത സ്പ്രിംഗ് രൂപകൽപ്പനയുടെ കാര്യത്തിൽ നിങ്ങൾ ഡിസൈൻ പുസ്തകങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു വയർ ഉപയോഗിക്കുമ്പോൾ അതേ മെറ്റീരിയലിനുള്ള യീൽഡ് ബൾക്ക് മെറ്റീരിയലിനേക്കാൾ വളരെ ഉയർന്നതാണ് ഇത് ഒരു വശമാണ് ഡാവിഞ്ചി ശ്രദ്ധിച്ച മറ്റൊരു വശം ഉണ്ട് അദ്ദേഹം പറഞ്ഞത് നീളം നീളം ചെറുതാണെങ്കിൽ ശക്തി വർദ്ധിക്കുന്നു ഇത് ഒരു പരീക്ഷണ നിരീക്ഷണമാണ് ഇതിന് നമുക്ക് ഒരു വിശദീകരണം ആവശ്യമാണെന്ന് കാണുക പരീക്ഷണം സത്യമാണെന്ന് ഓർമ്മിക്കുക പരീക്ഷണം ശ്രദ്ധാപൂർവ്വം നടത്തുകയും ഫലങ്ങൾ സത്യസന്ധമായി റിപ്പോർട്ടുചെയ്യുകയും ചെയ്താൽ പരീക്ഷണം സത്യമാണ് അത്തരമൊരു പെരുമാറ്റത്തിനുള്ള കാരണങ്ങൾ നിങ്ങൾ കണ്ടെത്തണം 1839 ൽ ലെ ബ്ലാങ്ക് എന്ന മറ്റൊരാളെ അവിടെ കാണാം അതേ വ്യാസമുള്ള ഹ്രസ്വ വയറുകളേക്കാൾ ദുർബലമായി നീളമുള്ള ഇരുമ്പ് വയറുകളും അദ്ദേഹം സ്ഥാപിച്ചു അതിനാൽ വലുപ്പവുമായി എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് ആളുകൾ കണ്ടെത്തുന്നു അവർ അതിനെ ഒരു സൈസ് ഇഫക്റ്റായി സാമാന്യവൽക്കരിച്ചു കൂടാതെ ടെസ്റ്റ് പീസുകളുടെ അളവുകൾ കുറയുന്നതിനനുസരിച്ച് ശക്തി വർദ്ധിക്കുന്നതായി അവർ റിപ്പോർട്ട് ചെയ്തു വളരെ കടുത്ത നിഗമനം നിങ്ങൾക്കറിയാമോ ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിൽ നമുക്ക് ഇപ്പോൾ അത് ചെയ്യാൻ കഴിയില്ല യഥാർത്ഥ പ്രയോഗത്തിൽ സൈദ്ധാന്തിക ശക്തി കൈവരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കണ്ടെത്താൻ അവർ പാടുപെടുന്ന ആ ദിവസങ്ങളിൽ എന്നാൽ മാതൃകയുടെ വലുപ്പം കുറയുമ്പോൾ ശക്തി കൂടുന്നുവെന്ന് അവർ നിരീക്ഷിച്ചു അവർ ഇത് ശ്രദ്ധിച്ചു ഇതിന് അവർക്ക് ഒരു വിശദീകരണം ആവശ്യമാണ് ഗ്രിഫിത്തിന് ആശങ്കയുണ്ടായിരുന്നതും ഈ വലുപ്പമാണ് യഥാർത്ഥത്തിൽ ഒരു ക്രാക്ക് സൈസ് ലെങ്ത് ഇഫക്റ്റ് എന്ന് അദ്ദേഹത്തിന് തോന്നി അതിനാൽ ഗ്ലാസ് നാരുകളിൽ അദ്ദേഹം ഫലം കാണിച്ചു അവയുടെ വ്യാസം ശ്രദ്ധാപൂർവ്വം കുറയ്ക്കുകയും തുടർന്ന് നാരുകളുടെ കനം ഒടിവ് ശക്തി എന്നിവയ്ക്കെതിരേ അദ്ദേഹം ഗ്രാഫ് വരക്കുകയും ചെയ്തു ഇത് പൂർണ്ണമായും പരീക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് ഗണ്യമായി ക്ഷയിച്ചുകൊണ്ടിരുന്നു ഇത് 175 MPa യുടെ ബൾക്ക് ഗ്ലാസിന്റെ ശക്തിയിലേക്ക് എത്തുന്നു ഫൈബറിന്റെ കനം കുറയുമ്പോൾ അത് ഗ്ലാസിന്റെ സൈദ്ധാന്തിക ശക്തിയായ 11000 MPa യെ സമീപിക്കുകയായിരുന്നു എന്താണ് വ്യത്യാസം രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് വിവിധ അളവിലുള്ള വിള്ളലുകൾ ഉണ്ട് നിങ്ങൾ ഗ്ലാസ് നേർത്തതും നേർത്തതുമായി വരച്ചാൽ വിള്ളലുകൾ കുറയുകയും ഗ്ലാസ് വളരെ ശക്തമാവുകയും ചെയ്യും വാസ്തവത്തിൽ ഇത് ഉപയോഗപ്രദമാണ് സംയോജനത്തിന്റെ വികസനം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ഈ ഉപയോഗപ്രദമായ അവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗ്ലാസ് സ്വയം പൊട്ടുന്നതാണ് പക്ഷേ റെസിൻ ഉൾച്ചേർത്ത ഗ്ലാസ് നാരുകൾ ഒരു ഫൈബർ ഗ്ലാസ് സംയുക്തമായി പ്രവർത്തിക്കുന്നു വളരെ നല്ലത് നിങ്ങൾക്ക് ഫൈബർ ഗ്ലാസ് ബോർഡുകൾ ഉണ്ട് നിങ്ങൾക്ക് ഫൈബർ ഗ്ലാസ് മൃതംഗവും മറ്റും ഉണ്ട് അതിനാൽ ഒരു റെസിനിൽ ഉൾച്ചേർത്താൽ നിങ്ങൾക്ക് ഫൈബർ രൂപത്തിലുള്ള ഗ്ലാസിന്റെ ഉപയോഗം നന്നായിരിക്കും അതിനാൽ ഗ്രിഫിത്ത് നോക്കിയത് ഗ്ലാസ് ഫൈബറിന്റെ കാര്യത്തിൽ വിള്ളലുകളുടെ സാന്നിധ്യം ശക്തി കുറച്ചിട്ടുണ്ട് അതിനാൽ മാതൃകയുടെ വലുപ്പം കുറയുമ്പോൾ ശക്തി വർദ്ധിക്കുന്നത് എന്തുകൊണ്ടെന്ന് യുക്തിസഹമായ ഒരു വിശദീകരണം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഈ ഗ്രാഫിന്റെ ഒരു രേഖാചിത്രം നിങ്ങൾ നിർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഗ്രിഫിത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണിത് അനുയോജ്യമായ പരീക്ഷണങ്ങളിലൂടെ അവർ എല്ലായ്പ്പോഴും അത് പരിശോധിച്ചുറപ്പിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെങ്കിൽ അവർ സിദ്ധാന്തങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരുന്ന ആ ദിവസങ്ങളിലും നിങ്ങൾ നോക്കണം എന്നിരുന്നാലും സങ്കീർണ്ണമായേക്കാം പരീക്ഷണം നടത്താൻ അവർ ബുദ്ധിമുട്ടുന്നു കാരണം ആ സമയത്ത് കത്തുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ അവർ പാടുപെടുകയായിരുന്നു വളരെയധികം ഗണിതശാസ്ത്രത്തിലേക്ക് കടക്കാതെ നാം ഇതിനകം തന്നെ ഈ പദപ്രയോഗം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഗ്രിഫിത്തിന്റെ ഫ്രാക്ചർ സ്ട്രെങ്ത് ഇപ്രകാരമാണ് ഇത് "2 ഹരിക്കണം പൈ E ഗുണിക്കണം ഗാമ s ഹരിക്കണം a" യുടെ അര തവണ ആണ് ഇത് ഒരു പ്ലയിൻ സ്ട്രെസ് സാഹചര്യത്തിനുള്ളതാണ് ഈ പദപ്രയോഗത്തിന്റെ മറ്റ് പ്രധാന വശം എന്താണ് ഈ പദപ്രയോഗത്തെ വിവിധ വീക്ഷണകോണുകളിൽ നിന്ന് നോക്കാം ഒന്ന് അദ്ദേഹം ഒടിവുമായി ബന്ധപ്പെട്ടതിനു കാരണം വിള്ളലിന്റെ നീളം ആണ് ഇത് നോക്കാനുള്ള മറ്റൊരു മാർഗ്ഗം ഇംഗ്ലിസ് ലായനിയിൽ വളരെ ചെറിയ ബാഹ്യ ലോഡുള്ള വളരെ ചെറിയ ഒരു വിള്ളലിനു പോലും സമ്മർദ്ദങ്ങൾ വളരെ ഉയർന്നതായിരിക്കും ഈ മാതൃക കഷണങ്ങളായി വിഘടിക്കും എന്നാൽ യഥാർത്ഥ പ്രയോഗത്തിൽ അങ്ങനെയല്ല അതിനാൽ അതൊരു വിരോധാഭാസമാണ് ഇംഗ്ലിസ് പരിഹാരം ഉപയോഗപ്രദമായിരുന്നു പക്ഷേ ആ പരിഹാരത്തിന്റെ പ്രയോജനം ചോദ്യം ചെയ്യപ്പെടുന്നു കാരണം യഥാർത്ഥ ഘടനകൾ വിള്ളലുകളുമായി എങ്ങനെ ഉറച്ചുനിൽക്കുന്നുവെന്ന് വിശദീകരിക്കാൻ ആളുകൾക്ക് കഴിയില്ല അതിനാൽ വിരോധാഭാസം ഗ്രിഫിത്ത് പരിഹരിച്ചു പ്ലേറ്റിന്റെ ശക്തി വിള്ളലിന്റെ വലുപ്പത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇംഗ്ലിസ് പരിഹാരത്തിൽ നിന്നുള്ള അടിയന്തര നിരീക്ഷണം അതായിരുന്നു ഗ്രിഫിത്ത് വിള്ളലിന്റെ ദൈർഘ്യം പ്രശ്നമാണ് എന്ന് പറഞ്ഞു ഈ എക്സ്പ്രഷൻ ഫ്രാൿചർ ബലം തന്നിരിക്കുന്ന സ്ട്രെസ് മൂല്യത്തിനായുള്ള നിർണ്ണായക ക്രാക്ക് ദൈർഘ്യം എന്നിവ ഉപയോഗിച്ച് എനിക്ക് കണ്ടെത്താൻ കഴിയും അതിനാൽ ഈ പദപ്രയോഗം വളരെ പ്രധാനമാണ് വളരെ ലളിതമായ വിശകലനത്തിൽ നിന്ന് നമ്മൾ നോക്കിയത് രണ്ട് പുതിയ പ്രതലങ്ങളുടെ രൂപവത്കരണത്തിന് നിങ്ങൾക്ക് സ്ട്രെയിൻ എനർജിയിൽ നിന്ന് ഊർജ്ജം ലഭിക്കുന്നു ഒപ്പം ഒടിവുണ്ടാക്കുന്ന ശക്തിക്കായി എക്സ്പ്രഷൻ നേടാൻ നമുക്ക് കഴിഞ്ഞു അതിനാൽ ഗ്രിഫിത്ത് നിഗമനം ചെയ്തത് വ്യക്തമായ വലുപ്പ ഇഫക്റ്റ് യഥാർത്ഥത്തിൽ ഒരു ക്രാക്ക് സൈസ് ഇഫക്റ്റാണ് സൈദ്ധാന്തിക ശക്തിക്കും ഒടിവുണ്ടാക്കുന്ന ശക്തിക്കും വേണ്ടിയുള്ള പദപ്രയോഗം പരിശോധിച്ചാൽ സിഗ്മ f അനുപാതത്തെ സിഗ്മ th കൊണ്ട് ഹരിച്ചാൽ എനിക്ക് കണ്ടെത്താനാകും അത് ഏകദേശം "'b' ഹരിക്കണം 'a'" യുടെ അര തവണക്ക് തുല്യമാണ് അതിനാൽ നിങ്ങൾക്ക് പോയി ഒരു ബൾക്ക് ഗ്ലാസിനായി വിള്ളലിന്റെ വലുപ്പം എന്താണെന്ന് കണ്ടെത്താനാകും വിള്ളലിന്റെ വലുപ്പം 0 025 മില്ലിമീറ്റർ ക്രമത്തിലാണ് കാരണം ഒരു ബൾക്ക് ഗ്ലാസിന് ഈ വിള്ളൽ നീളമുണ്ട് അതിന്റെ ഒടിവ് ശക്തി സൈദ്ധാന്തിക ശക്തിയേക്കാൾ വളരെ താഴെയാണ് നോക്കൂ നിങ്ങൾ ഗ്രാഫ് നോക്കിയാൽ സൈദ്ധാന്തിക ശക്തി 11000 MPa ആണെന്നും ബൾക്ക് ഗ്ലാസ് ദൃഢത 175 MPa ആണെന്നും നമ്മൾ മനസ്സിലാക്കി ഗ്രിഫിത്ത് വികസിപ്പിച്ച പദപ്രയോഗം കാരണം ഇപ്പോൾ ബൾക്ക് ഗ്ലാസിന്റെ വിള്ളൽ നീളം 0 025 മില്ലിമീറ്ററായിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയും ഇപ്പോൾ ഇതിനേക്കാൾ കനംകുറഞ്ഞ ഗ്ലാസ് ഫൈബർ നിങ്ങൾ എടുക്കുന്നു ആ വിള്ളലിന്റെ വലുപ്പത്തേക്കാൾ വളരെ താഴെയായിരിക്കുമ്പോൾ എന്തുസംഭവിക്കും മൂല്യം സൈദ്ധാന്തിക ശക്തിയെ സമീപിക്കുന്നതായി നിങ്ങൾ കാണുന്നു ഇപ്പോൾ കഥ പൂർത്തിയായി മാതൃകയുടെ വലുപ്പം കുറയുമ്പോൾ ശക്തി വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആളുകൾ ബുദ്ധിമുട്ടുന്നു ഊർജ്ജ ബാലൻസ് സമീപനം വികസിപ്പിക്കുന്നതിനിടയിൽ ഗ്രിഫിത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലെ പ്രശ്നമാണിത് അദ്ദേഹത്തിന് ഒടിവുണ്ടായി വിള്ളലിന്റെ നീളം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു ആളുകൾ ഇത്തരത്തിലുള്ള ഒരു സമീപനത്തിനായി പ്രവർത്തിച്ചിട്ടുണ്ട് കൂടാതെ മറ്റ് നിരവധി സാഹചര്യങ്ങളിൽ ഒടിവുണ്ടാക്കുന്ന ശക്തിയും അവർ കണ്ടെത്തി ഒരു തലം സമ്മർദ്ദ സാഹചര്യത്തിനായി പ്ലെയിൻ സ്ട്രെസ് സിറ്റുവേഷന് ഒടിവുണ്ടാക്കുന്ന ശക്തി '2 ഹരിക്കണം പൈ ഗുണിക്കണം E ഗുണിക്കണം ഗാമ s ഹരിക്കണം a' യുടെ അര തവണ ആണ് എക്സ്പ്രഷൻ എങ്ങനെ കാണപ്പെടുമെന്ന് ഞാൻ കരുതുന്നു പദപ്രയോഗത്തിൽ ഒരു ചെറിയ വ്യത്യാസം മാത്രമേയുള്ളൂ നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്നത് യങ്സ് മോഡുലസിനുപകരം യങ്സ് മോഡുലസ് ഹരിക്കണം 1 കുറക്കണം nu സ്ക്വയർ ആണ് വാസ്തവത്തിൽ ഫ്രാക്ചർ മെക്കാനിക്സിൽ ഇത്തരത്തിലുള്ള പരിഷ്ക്കരണം നിങ്ങൾ കാണും തലം സമ്മർദ്ദത്തിനായുള്ള പദപ്രയോഗം നിങ്ങൾ വികസിപ്പിച്ചെടുക്കും യങ്സ് മോഡുലസ് ഹരിക്കണം യങ്സ് മോഡുലസ് ഹരിക്കണം 1 കുറക്കണം nu സ്ക്വയർ ആയി മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് അതിനെ പ്ലെയിൻ സ്ട്രെയിനായി പരിവർത്തനം ചെയ്യാൻ കഴിയും തിരിച്ചും നമുക്ക് അത് ചെയ്യാൻ കഴിയും ഇത് നിങ്ങൾക്ക് പ്ലെയിൻ സ്ട്രെയ്നിനായി ലഭിക്കും ആളുകൾ മറ്റൊരു പ്രശ്നവും പരിശോധിച്ചു നിങ്ങൾക്ക് ഒരു ത്രിമാന സോളിഡ് ഉള്ളപ്പോൾ നിങ്ങൾക്കറിയാം അവിടെ നിങ്ങൾക്ക് ഒരു ചില്ലിക്കാശിന്റെ ആകൃതിയിലുള്ള വിള്ളൽ ഉണ്ട് നിങ്ങൾക്ക് ഒരു ചില്ലിക്കാശിന്റെ ആകൃതിയിലുള്ള വിള്ളൽ ഉണ്ടായപ്പോൾ ആളുകൾ പദപ്രയോഗം കണ്ടെത്തിയത് സംഖ്യാ ഘടകം മാത്രമാണ് രൂപം അതേപടി തുടർന്നു നിങ്ങൾക്ക് യങ്സ് മോഡുലസ് ഉണ്ട് നിങ്ങൾ ഉപരിതല ഊർജ്ജത്തെ വിള്ളൽ കൊണ്ട് ഹരിക്കുന്നു സംഖ്യാ ഘടകം മാത്രം മാറിക്കൊണ്ടിരുന്നു ഇത് വിള്ളൽ പ്രശ്നങ്ങൾ സാമാന്യവൽക്കരിക്കുന്നതിന് ഇർവിൻ ഉപയോഗിച്ച വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് അതിനാൽ ഊർജ്ജ സമീപനത്തിൽ നിന്ന് ഗ്രിഫിത്ത് തിരിച്ചറിഞ്ഞത് രണ്ട് പുതിയ പ്രതലങ്ങളുടെ രൂപവത്കരണത്തിന് സിസ്റ്റത്തിന്റെ സ്ട്രെയിൻ എനർജിയിൽ നിന്ന് ഊർജ്ജം നൽകേണ്ടതുണ്ട് ഒടിവുണ്ടാക്കുന്ന ശക്തിയുടെ ആവിഷ്കാരം നേടാൻ ഇത് അദ്ദേഹത്തെ സഹായിച്ചു ഇത് ഇംഗ്ലിസ് ലായനിയിലെ വിരോധാഭാസവും വിശദീകരിച്ചു എന്തുകൊണ്ടാണ് യഥാർത്ഥ ശക്തി മെറ്റീരിയൽ സൈദ്ധാന്തിക ശക്തിയേക്കാൾ വളരെ താഴെയാണ് പിന്നീട് ആളുകൾ വിവിധ പ്രായോഗിക സാഹചര്യങ്ങൾക്കായി നടത്തിയപ്പോൾ അവർ ഒരു സമാനത കണ്ടെത്തി അതിനാൽ വരും വർഷങ്ങളിൽ ഫ്രാക്ചർ മെക്കാനിക്സ് വികസിപ്പിക്കാൻ ഇത് സഹായിച്ചു ഗ്രിഫിത്തിന്റെ മനസ്സിന്റെ ഒരു സുപ്രധാന സംഭാവനയാണിത് അദ്ദേഹത്തിന്റെ വിശകലനങ്ങളെല്ലാം തന്നെ പൊട്ടുന്ന സോളിഡുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു നിങ്ങൾ അത് ഒരിക്കലും മറക്കരുത് നന്ദി